ഇന്റർനെറ്റ് ഓഫ് തിംഗ്സിനായുള്ള രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നതിനു മുമ്പ് നമുക്ക് മുമ്പ് സൂചിപ്പിച്ച സ്ലൈഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എഡ്ജ് ഉപകരണം ക്ലൌഡ് സംഭരണം അനലിറ്റിക്സ് വിഷ്വലൈസേഷൻ എന്നിവയാണ് ഇതിലെ ഘടകങ്ങൾ ഈ വിഷ്വലൈസേഷനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അത് ഒരു ജി യു ഐ പോലെ തോന്നുമെങ്കിലും ശരിക്കും അങ്ങനെയല്ല ഒരു ജിയുഐഎന്നതിനപ്പുറം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഈ വിഷ്വലൈസേഷൻ ഉപകരണം ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യനിർവഹണ സൂചകങ്ങളെ പറ്റിയാണ് എന്താണ് കാര്യനിർവഹണ സൂചകം അടിസ്ഥാനപരമായി ഇത് മറ്റൊരാൾക്ക് കണക്കാക്കാവുന്ന വിജയത്തിൻറെ അളവാണ് ഈ അളവ് വ്യത്യസ്ത രീതികളിൽ കാണാനും വീക്ഷിക്കാനും കഴിയും അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അളവ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്കാരണം ബന്ധപ്പെട്ട ചില അപകടസാധ്യതകൾ ലഘൂകരിക്കുക അല്ലെങ്കിൽ സിസ്റ്റത്തിലെ പിശകുകൾ തിരിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുനിങ്ങളുടെ സിസ്റ്റം എത്ര മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു നിങ്ങൾ ഒരു കമ്പനി ആണെങ്കിൽ ശരിയായി വിൽപന എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങൾ ചെലവ് കുറയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നു വിൽപന മെച്ചപ്പെടുത്താനും തത്സമയം കാര്യങ്ങൾ വീക്ഷിക്കാനും നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു അതിനാൽ ഈ വിഷ്വലൈസേഷൻ ഉപകരണം നിങ്ങൾക്കായി കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് കൂടാതെ വേറിട്ടതായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അത് തത്സമയം സംഭവിക്കണം അത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു ഈ സ്ലൈഡിന് പുറമെ നമ്മൾ ഐഒടി ഉപകരണങ്ങൾ ഗേറ്റ്വേ എഡ്ജ് ഉപകരണങ്ങൾ ഇൻറർനെറ്റ് എന്നിവയെക്കുറിച്ച് സംസാരിച്ചു നമുക്ക് ഇന്റർനെറ്റ് ഓഫ് തിംഗ്സിൻറെ മുഴുവൻ രൂപകൽപ്പനയും സംഗ്രഹിക്കുന്ന ഒരു ഐഒടി സിസ്റ്റത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുന്ന വളരെ രസകരമായ ഒരു ചിത്രം വരയ്ക്കാം അതിനാൽ ഈ നാല് ബ്ലോക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വളരെ രസകരമായ സംഗതിയിലേക്ക് ഉൾപ്പെടുത്താം നമുക്ക് ഐഒടി ഉപകരണങ്ങൾ ശരിയായി വെക്കാം അതിനാൽ ആദ്യത്തെ ബ്ലോക്ക് ഐഒടി ഉപകരണങ്ങൾ തന്നെയാണ് അവയിൽ പലതിനെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു ഞാൻ ഇതിനകം അത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ ഇല്ല പക്ഷേ ഇത് ഒരു ഭാഗം മാത്രമാണ് എനിക്ക് ഇതും എടുക്കാമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് 1 മുതൽ n വരെ ഐഒടി ഉപകരണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഗേറ്റ്വേ ഉണ്ട് അത് എംബഡഡ് സിസ്റ്റമാണ് എംബഡഡ് ഓപ്പറേറ്റിങ് സിസ്റ്റം അല്ലെങ്കിൽ എംബഡഡ് കോഡ് പ്രവർത്തിപ്പിക്കുന്നു തീർച്ചയായും ഇത് അവസാന ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച പ്രോട്ടോക്കോൾ വിവർത്തനമാകാം ഇൻറർനെറ്റ് സംവിധാനമുണ്ടെന്ന് ആകാം അതിനാൽ ഞാൻ ഇൻറർനെറ്റിനെ ഉചിതമായി സൂചിപ്പിക്കണം ഞാൻ ഇൻറർനെറ്റിനെ പ്രതിനിധീകരിക്കുന്നതിന് ഒരു മേഘം വരയ്ക്കും തീർച്ചയായും ഉപയോക്താവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് അവൻ വ്യക്തമായും ഇല്ല അവൻ വിദൂര ഉപയോക്താവാണ് ഈ സ്ലൈഡുകളുടെഐഒടി ഉപകരണങ്ങളുടെ പരിധിയിൽ അദ്ദേഹം ഇല്ല ഈ ഉപകരണങ്ങൾ 1 മുതൽ n വരെ ഉണ്ട് അവൻ അല്ലെങ്കിൽ അവൾ ശരിക്കും ഇവിടെ ഇല്ല ഉപയോക്താവ് യഥാർത്ഥത്തിൽ വിദൂരമായി ഇരിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു കൂട്ടം അമ്പുകൾ വരയ്ക്കും നമുക്ക് ഇതിനകം ഇവിടെ ഒരു അമ്പടയാളം ഉണ്ട് അത് ഒരു ദിശയിൽ നിന്ന് വരുന്ന ഡാറ്റയാണ് മറ്റൊരു ദിശയിൽ നിന്ന് വരുന്ന കമാൻഡ് വ്യക്തമായും ഒരു കമാൻഡ് ഉണ്ട് ഈ കമാൻഡ് ഒരുപക്ഷേ ഉപയോക്താവിൽ നിന്നായിരിക്കാം അതിനാൽ ഉപയോക്താവിൽ നിന്ന് ഈ കമാൻഡ് തിരിച്ച് ഉപകരണങ്ങളിലേക്ക് മടങ്ങുന്നു ഉപയോക്താവ് യഥാർത്ഥത്തിൽ ആ കമാൻഡ് കൈമാറണമെങ്കിൽ അനലിറ്റിക്സിൽanalytics നിന്ന് വരുന്ന ചില ഡാറ്റയിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കണം അതിനാൽ ഇന്റർനെറ്റിൽinternet നിന്ന് ബ്ലോക്കിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാകണം അതിനാൽ അനലിറ്റിക്സ് സംഭരണം എന്നിവ പ്രധാനമാണ് നമ്മൾ കഴിഞ്ഞ തവണ പരാമർശിച്ചത് അത് ക്ലൌഡ് സംഭരണമാകാം അല്ലെങ്കിൽ അത് പ്രാദേശിക സംഭരണമാകാം എന്നാൽ ഏത് സാഹചര്യത്തിലും അനലിറ്റിക്സ് എഞ്ചിൻ ഉണ്ടായിരിക്കണം അതിനർത്ഥം ഡാറ്റ അകത്തേക്ക് പോയിരിക്കണംഅനിവാര്യമായും വിശകലന ഡാറ്റ മടങ്ങി പോകേണ്ടിവരും ഇതിനർത്ഥം ഇന്റർനെറ്റ് വഴിയുള്ള വിശകലന ഡാറ്റ ഉപയോക്തൃ വിശകലനത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട് അതിനാൽ ഞാൻ അത് വൃത്തിയായി എഴുതട്ടെനമ്മൾ അതിനെ വിശകലന ഡാറ്റ എന്ന് വിളിക്കും ഇപ്പോൾ നിങ്ങൾ ചിത്രം കാണുന്നു അത് എന്താണ് പറയുന്നത് അത് പറയുന്നത് പരിസ്ഥിതിയെ സംവേദനം ചെയ്യുന്ന ഒരു കൂട്ടം ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഇവ 1 മുതൽ n വരെയുള്ള ഉപകരണങ്ങളാണ് അവ ഓരോന്നും ഇടയ്ക്കിടെ ഡാറ്റ സൃഷ്ടിക്കുന്നു ഈ ഉപകരണങ്ങൾ ഒന്നുകിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നവയാണ് അല്ലെങ്കിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നവയാണ്അവ വയർ വഴിയോ അല്ലെങ്കിൽ വയർലെസ് ലിങ്കിലൂടെയോ ഡാറ്റ നൽകുകയും ചെയ്യുന്നു സാധാരണയായി വയർലെസ് ലിങ്കാണ് ഉപയോഗിക്കുന്നത് ഇവ അൾട്രാ ലോ പവർ ഉപകരണങ്ങളുമാണ് ഇത് ശരിക്കും അൾട്രാ ആണെന്നത് ശ്രദ്ധിക്കുക ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കുറഞ്ഞ പവർ ഉപകരണങ്ങൾഎംബഡഡ് കോഡ് പ്രവർത്തിപ്പിക്കുന്നുണ്ടാകാം ചെറിയ എംബഡഡ് ഒഎസ് പ്രവർത്തിപ്പിക്കുന്നുണ്ടാകാം ഇത് എംബഡഡ് കോഡ് ആകാം അല്ലെങ്കിൽ അത് എംബഡഡ് ഒഎസ് ആകാം നമ്മൾ എംബഡഡ് ഒഎസിന്റെ വിശദാംശങ്ങളും ഐ ഒ ടി ഉപകരണങ്ങൾക്കായുളള ഇന്ന് ലഭ്യമായ വിവിധ തരം എംബഡഡ് ഒഎസ് നെ പറ്റിയും പിന്നീട് പഠിക്കും ഈ ഉപകരണങ്ങളിലെ ബുദ്ധിശക്തി ചില കോഡ് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമല്ല പക്ഷേ ചില ത്രെഷോൾഡുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗേറ്റ്വേയിലേക്ക് കൈമാറുന്നതിന് മുൻപ് ഡാറ്റയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോക്കുമ്പോൾ ചെറിയ അളവിൽ ബുദ്ധിശക്തിയുണ്ട് ഒന്നുകിൽ അത് ആകാം അല്ലെങ്കിൽ അത് ലളിതമായിരിക്കാം നിരന്തരം ഡാറ്റ സെൻസിംഗ് ചെയ്യുന്നതിനും ഇത് ഈ ഗേറ്റ്വേയിലേക്കുള്ള ഡാറ്റ നിരന്തരം നൽകുന്നതിനുംമാത്രമായ ഉപകരണങ്ങൾ ആയിരിക്കാം അതിനാൽ തിരികെ വരുമ്പോൾ ഇവയെല്ലാം പ്രധാനമായും ഡാറ്റ വിതരണം ചെയ്യുന്ന ഐ ഒ ടി ഉപകരണങ്ങളാണ് ഈ ഡാറ്റ ഇപ്പോൾ അനലിറ്റിക്സ് സംഭരണത്തിലേക്ക് പോകുന്നു ഈ ലിങ്ക് എനിക്ക് നഷ്ടപ്പെടു ഇത് ഡാറ്റയായിരിക്കണം ഇത് കമാൻഡ് ആയിരിക്കണം അതിനാൽ കമാൻഡ് ഈ ദിശയിൽ ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ 1 മുതൽ n വരെ ഐ ഒ ടി ഉപകരണങ്ങൾ ഈ ഗേറ്റ്വേ ബ്ലോക്കിലേക്ക് ഡാറ്റ നൽകുന്നതായി കാണാം ഗേറ്റ്വേ ബ്ലോക്ക് അനലിറ്റിക്സ് ബ്ലോക്കിലേക് കൊടുക്കുന്നു വിശകലനം ചെയ്ത ഡാറ്റ ഈ റൂട്ടിലൂടെ ഇന്റർനെറ്റിലേയ്ക് പോകുന്നു വിശകലനം ചെയ്ത ഡാറ്റ വിദൂര ഉപയോക്താവിലേക്ക് പോകുന്നു ഉപയോക്താവ് ഇവിടെ പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ അടിസ്ഥാനമാക്കി അദ്ദേഹം ചെയ്യുന്ന വിഷ്വലൈസേഷൻ വിശകലനം ചെയ്ത് ഗേറ്റ്വേയിലേക്ക് ഒരു കമാൻഡ് തിരികെ നൽകുന്നു ഇതെല്ലാം ഇപ്പോൾ മനോഹരമായ കഥയാക്കി മാറ്റാം ഇവയിൽ ഓരോ ഐഒടി ഉപകരണങ്ങളും ഒരു വലിയ കൃഷിയിടത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം ഈ ചതുരാകൃതിയിലുള്ള ബ്ലോക്ക് ഈ ഐഒടി ഉപകരണങ്ങളെ പ്രതിനിധീകരിക്കുന്നതായി നമുക്ക് അനുമാനിക്കാം വൃത്താകൃതിയിലുള്ള ബ്ലോക്ക് വൃത്താകൃതിയിലുള്ള സിസ്റ്റം യഥാർത്ഥത്തിൽ ഒരു മണ്ണിന്റെ ഈർപ്പം ബ്ലോക്ക് ആണ് ഇത് ഒന്നുകിൽ ഒരു മണ്ണിന്റെ ഈർപ്പം ബ്ലോക്ക് ആകാം അല്ലെങ്കിൽ അത് മറ്റ് താപനില അളക്കുന്ന ബ്ലോക്കോ അല്ലെങ്കിൽ അത് മർദ്ദം ആകാം അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഈർപ്പം മണ്ണിന്റെ ഈർപ്പം എന്നിവയുൾപ്പെടെയുള്ള ഏതെങ്കിലും ആംബിയന്റ് പാരാമീറ്ററുകൾആകാം ഇപ്പോൾ ഉപയോക്താവ് ഇവിടെ ഇരിക്കുന്നു അവിടെയുള്ള ഒരു വലിയ കൃഷിയിടത്തിൽ നിന്ന് അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുന്നു ഈ ഗേറ്റ്വേയിലേക്കും നിരന്തരം ഡാറ്റ വിതരണം ചെയ്യുന്നത് ഈ വിതരണ സെൻസറുകളാണ് വിദൂര ഉപയോക്താവ് വിളയിലെ ജല ലഭ്യത മാത്രമാണ് നോക്കുന്നത് അതിനാൽ അതാണ് ഈ സംവിധാനം യഥാർത്ഥത്തിൽ അളക്കുന്നത് നിലവിലെ ജല ലഭ്യതയെ അടിസ്ഥാനമാക്കി വിദൂര ഉപയോക്താവ് ഇപ്പോൾ ഒരു കമാൻഡ് നൽകാൻ തീരുമാനിക്കുന്നു വയലിൽ ജല ലഭ്യത കുറവാണ് ഇപ്പോൾ വിദൂര ഉപയോക്താവ് തീരുമാനമെടുക്കണം വിളയ്ക്ക് അടിയന്തിരമായി നിങ്ങൾ വെള്ളം വിതരണം ചെയ്യണം അതിനാൽ നിങ്ങൾ ഒരു വെള്ളം വിതരണം ചെയ്യുന്ന ഏജൻസിയെവിളിക്കേണ്ടിവരാം അതുവഴി ഈ വയലിലേക്ക് വെള്ളം വിതരണം ചെയ്ത് വിള സംരക്ഷിക്കാം അതിനാൽ ഈ കമാൻഡ് വയലിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കാം ജലവിതരണത്തിനായി ബന്ധപ്പെട്ട ഏജൻസിയെ വിളിക്കാൻ അഭ്യർത്ഥിക്കാനുള്ള കമാൻഡ് ആയിരിക്കാം കമാൻഡ് നേരിട്ടും ഏജൻസിയിലേക്ക് പോകാം കൂടാതെ ഏജൻസി ഈ കമാൻഡ് എടുക്കുകയും ഈ കമാൻഡ് ഉപയോഗിച്ച് കൃഷിസ്ഥലത്ത് വെള്ളം നനയ്ക്കുകയും ഈ ഐ ഒ ടി ഉപകരണങ്ങൾ വീണ്ടും മണ്ണിന്റെ ഈർപ്പം അളക്കാൻ തുടങ്ങുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് പ്രാദേശിക വിദൂര ഉപയോക്താക്കളുണ്ട് നിങ്ങൾക്ക് ധാരാളം ഐഒടി ഉപകരണങ്ങൾ ഉണ്ട് ഇതൊരു കാർഷിക ഭൂമിയാണെന്ന കരുതുക ഈ ഐഒടി ഉപകരണങ്ങളെല്ലാം മണ്ണിന്റെ ഈർപ്പം അളക്കുന്നു ഈ ഡാറ്റ ഗേറ്റ്വേയിലൂടെ വിദൂര ഉപയോക്താവിന് പോകുന്നു പോകുന്നതിന് മുമ്പ് ആ ഡാറ്റ ഒരു അനലിറ്റിക്സ് എഞ്ചിനിലേക്ക് പോയിരിക്കണം ഡാറ്റ തീർച്ചയായും ശേഖരിക്കണം ഡാറ്റ മണിക്കൂറുകൾ ദിവസങ്ങൾആഴ്ചകൾ മാസങ്ങൾ സീസണുകളോളം ശേഖരിച്ച് നിങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രദേശം പൂർണ്ണമായി പ്രൊഫൈൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എല്ലാ ഡാറ്റയും യഥാർത്ഥത്തിൽ ജല ദൌർലഭ്യമുണ്ടോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് വിദൂര ഉപയോക്താവ് വിളയിൽ ജലദൌർലഭ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വിളയിൽ ജലവിതരണം നിർബന്ധമാണ് ആ കമാൻഡ് ഏജൻസിയിലേക്ക് പോകുന്നു ഏജൻസി നേരിട്ട് വെള്ളം വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ ആ കമാൻഡ് വയലിൽ ഉള്ള ഒരാളിലേക്ക് കൊടുക്കുകയും അയാൾ വിളിച്ച് ആ വയലിലേക്ക് ജലവിതരണം എത്തിക്കുകയും ചെയ്യും ഒരു കൃഷിസ്ഥലത്തിനായുള്ള ഒരു ഐഒടി സംവിധാനത്തിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ജല ദൌർലഭ്യത്തിൻറെ ഉദാഹരണമാണ് എടുത്തത് ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള പാരാമീറ്റർ മോണിറ്ററിംഗ് ആകാം നിങ്ങൾക്ക് ലൂപ്പ് പൂർത്തിയാക്കാൻ താൽപ്പര്യമുണ്ടാകാം ഒരു ഐഒടി സിസ്റ്റത്തിൻറെ മറ്റ് ചില ആപ്ലിക്കേഷനുകളുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾക്ക് ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻതാൽപ്പര്യമുണ്ടെന്ന് വിചാരിക്കുക അതിനാൽ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകൾക്കുള്ള ഒരു തരം ഐഒടി സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തുചെയ്യാനാകുമെന്ന് നോക്കാം പ്രത്യേകിച്ചും നിങ്ങൾ ചില പാരാമീറ്ററുകളുടെനിർണ്ണായക നിരീക്ഷണം നോക്കുകയാണെങ്കിൽ ഇതിനായി നമുക്ക് ഗിയറുകൾ മാറ്റാം കറങ്ങുന്ന യന്ത്രങ്ങളിൽ ബോൾ ബെയറിംഗുകൾ നിരീക്ഷിക്കുകയെന്നതിന്റെ അർത്ഥമെന്താണെന്ന് മനസിലാക്കാം ഓട്ടോമോട്ടീവുകൾക്കും വലിയ നിർമ്മാണ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന യന്ത്രസാമഗ്രികൾക്കും ഇത് ബാധകമാണ് കറങ്ങുന്ന ഭാഗങ്ങൾ ഉള്ളിടത്തെല്ലാം നിങ്ങൾക്ക് ബോൾ ബെയറിംഗുകൾ ഉണ്ട് ഇപ്പോൾ ഞാൻ സൂം ഇൻ ചെയ്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ലാബ് സജ്ജീകരണം കാണിച്ചുതരാം ബോൾ ബെയറിംഗുകളുടെ അവസ്ഥ നിരീക്ഷിക്കുന്നതിനായി ഒരു ഐഒടി സംവിധാനം കൂട്ടിച്ചേർക്കുന്നു എന്റെ മുന്നിൽ ഇവിടെ ഈ സജ്ജീകരണം ഉണ്ട് അതിൽ എന്താണ് ഉള്ളത് അതിന് ഈ ബെയറിംഗുകളെ തിരിക്കുന്ന ഒരു ഡിസി മോട്ടോർ ഉണ്ട് ബെയറിംഗ് എവിടെയാണ് ബെയറിംഗ് ഇവിടെയുണ്ട് ബെയറിംഗിലെ പന്തുകൾ ഇവിടെ കാണാനാകും ഇവിടെ അടിസ്ഥാനപരമായി ഒരു ഔട്ടർ റേസ് ഉണ്ട് ഇന്നർ റേസ് ഉണ്ട് ഇന്നർ റേസ് കറങ്ങുന്നു അതുപോലെ തന്നെ പന്തുകളും ഇന്നർ റേസിന്റെ ചലനം നിങ്ങൾക്ക് കാണാൻ കഴിയും അടിസ്ഥാനപരമായി ഇത് ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിൽ പ്രധാനമായും നിങ്ങൾ ഈ ബോൾ ബെയറിംഗിന്റെ അവസ്ഥ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് പ്രശ്ന പ്രസ്താവന നമ്മൾ എങ്ങനെ ചെയ്യുംനമ്മൾ എങ്ങനെ ഇത് കൃത്യമായി നിരീക്ഷിക്കും നിങ്ങൾ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പാരാമീറ്റർ എന്താണ് അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് അടിസ്ഥാനപരമായി ഒരു പേപ്പറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു പേപ്പർ ശീർഷകം ഇതാണ് കട്ടിയുള്ള മെറ്റൽ പ്ലേറ്റുകളിലൂടെ പ്രവർത്തിക്കുന്ന ബെയറിംഗുകളുടെ അവസ്ഥ നിരീക്ഷിക്കുന്നതിനുള്ള വയർലെസ് താപനില സെൻസർ ഇത് ഐഇഇഇ സെൻസർ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പേപ്പറാണ് വാല്യം 13 നമ്പർ 6 2013 ജൂൺ volume 13 number 6 June 2013 ഇതിനുള്ള പരീക്ഷണാത്മക സജ്ജീകരണതിന്റെ പ്രചോദനം തീർച്ചയായും ഈ പേപ്പറാണ് ഇപ്പോൾ എന്താണ് ഈ പേപ്പർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഐഒടി സിസ്റ്റത്തിന്റെ രൂപകൽപ്പനയുമായുള്ള അതിന്റെ ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ബോൾ ബെയറിംഗുകളുടെ അവസ്ഥ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആരംഭിക്കാം എന്താണ് അവസ്ഥ നിരീക്ഷണം എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മോണിറ്ററിംഗ് രൂപങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം നാമെല്ലാവരും ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ നിരീക്ഷണ രീതി സമയബന്ധിതമായ അറ്റകുറ്റപ്പണികളാണ് നിങ്ങൾ ഒരു കാർ വാങ്ങുന്നുനിങ്ങൾ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നു നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുള്ള ഷെഡ്യൂളിൽ സേവനത്തിനായി നിങ്ങളുടെ വാഹനം നൽകണം ഇതാണ് സമയബന്ധിതമായ അറ്റകുറ്റപ്പണി ഇതിൽ സമയവുമായി സമയബന്ധിതമായ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് ഇത് ഒരു വഴിയാണ് മറ്റൊരു വഴി എന്തെന്നാൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയായിരുന്ന ബെയറിംഗ് പോലുള്ള നിർണായക ഘടകങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് അവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണത്തിൽ നിങ്ങളിത് എന്തിന് ചെയ്യണം സമയബന്ധിതമായ അറ്റകുറ്റപ്പണിയിൽ നിന്നും എന്തുകൊണ്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാം അവസ്ഥ നിരീക്ഷണം നിങ്ങൾക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പ്രവർത്തനത്തെ പ്രാപ്തമാക്കും എന്താണ് സമയബന്ധിതമായ അറ്റകുറ്റപ്പണിയിൽ സംഭവിക്കുന്നതെന്ന് കാണുക നിങ്ങൾക്ക് ഒരു വലിയ ബില്ല് ലഭിച്ചേക്കാം കാരണം സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തുകയാണെങ്കിൽ ഭാഗങ്ങളുടെ മാറ്റിസ്ഥാപിക്കൽ ധാരാളം ഉണ്ടായിരിക്കാം വാസ്തവത്തിൽഈ ഭാഗം നിങ്ങൾ 6000 കിലോ മീറ്റർ ഓടിച്ചു അത് മാറ്റി സ്ഥാപിക്കുന്നത് ആവശ്യമാണെന്ന് നിർമ്മാതാവ് പറയും അതിനാൽ ഒരു സിസ്റ്റം പരിപാലിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് നിങ്ങൾ നിർണ്ണായക നിരീക്ഷണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കറങ്ങുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽനിങ്ങൾ ഈ അവസ്ഥ നിരീക്ഷണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷയെ വളരെ പ്രധാനപ്പെട്ട ആവശ്യകതയായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു ബെയറിംഗ് തകരാറിലായാൽ നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് ഒരു ജീവൻ അപകടത്തിലാക്കാം നിങ്ങൾ എവിടെയെല്ലാമാണ് ബോൾ ബെയറിംഗുകൾ കാണുന്നത് കാറ്റാടിയന്ത്ര ജനറേറ്റർ ഓട്ടോമൊബൈലുകൾ കറങ്ങുന്ന യന്ത്രങ്ങൾ ഉള്ളിടത്തെല്ലാം നിങ്ങൾക്ക് ബെയറിംഗ് ആവശ്യമാണ് വാസ്തവത്തിൽ നിങ്ങൾ ബെയറിംഗുകളുടെ അവസ്ഥ നിരീക്ഷണം ചെയ്യേണ്ടതിന്റെ നിരവധി കാരണങ്ങൾ പേപ്പർ യഥാർത്ഥത്തിൽ പട്ടികപ്പെടുത്തുന്നു അവയിലൊന്ന് ഒരു നിർമ്മാണ വൈകല്യം മാത്രമായിരിക്കാം അത് ഷാഫ്റ്റ് തെറ്റായി വിന്യസിക്കുന്നതായിരിക്കാം ശരി അവിടെ ഈ മോട്ടോർ ഉണ്ട് ബെയറിംഗും ഇവിടെയുണ്ട് അതിനുശേഷം ഒരു ഷാഫ്റ്റ് ഉണ്ട് മോട്ടറിന്റെ ഷാഫ്റ്റിനെ ഇവിടെ ബെയറിംഗുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട് ഈ ഷാഫ്റ്റിൽ നമുക്ക് ഒരു തെറ്റ് സംഭവിക്കാം അല്ലെങ്കിൽ അത് ഇവിടെയുള്ള ലൂബ്രിക്കന്റ് ബാഷ്പീകരിക്കപ്പെട്ടതിനാലാകാം അതെല്ലാം ബെയറിംഗിൻറെ താപനില ഉയർത്തുന്നു അതിനാൽ ഈ വൈകല്യങ്ങളിൽ ഏതെങ്കിലും ബെയറിംഗിൻറെ ഉയർന്ന താപനിലയുടെ കാര്യത്തിൽ പ്രകടമാകും ശരിയാണ് അതിനാൽ ബെയറിംഗിൻറെ താപനില കൂടുകയാണെങ്കിൽ ഈ വർധന യഥാർത്ഥത്തിൽ തെറ്റാണെന്നോ അത് അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കൽ ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് വരുന്നുവെന്നോ ഉള്ള ഒരു നല്ല സൂചകമാണ് അതിനാൽ നിങ്ങൾ പ്രധാനമായി ഒരു പാരാമീറ്റർ നോക്കണം ആ പാരാമീറ്റർ താപനിലയാണ് അതിനാൽ ഈ ബാൾ ബെയറിംഗിൻറെ താപനില അളക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിനാൽനമ്മൾ ചെയ്തത് ഈ വയർ ഇവിടെ ഇടുകയായിരുന്നുഈ വയർ പ്രധാനമായും ഉപയോഗിക്കുന്നതിന് കാരണം ഇത് ഒരു ലാബ് സജ്ജീകരണമാണ് എങ്ങനെയെങ്കിലും അത് ഏതെങ്കിലും വിധത്തിൽ അളക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും ബെയറിംഗിൻറെ താപനില അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽനിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒരു തെർമോമീറ്റർ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ലളിതമായ കാര്യം ഒരു ലാബ് അല്ലെങ്കിൽ ഒരു വ്യാവസായിക തെർമോമീറ്റർ ഉപയോഗിച്ച് ഈ ബെയറിംഗിന്റെ താപനില അളക്കുക അത് ഒരു വഴിയാണ് നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായി അളക്കണമെങ്കിൽ അത് താൽപര്യത്തോടെ ചെയ്യാം ഈ പേപ്പർ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ചെയ്യുന്നത് കാന്തികക്ഷേത്രത്തിലെ മാറ്റത്തെ അളക്കുന്നു കാന്തികക്ഷേത്രത്തിലെ മാറ്റം താപനിലയിലെ മാറ്റത്തിന് ആനുപാതികമാണ് അതിനാൽ നിങ്ങൾ പ്രധാനമായും ഇവിടെ മറ്റൊരു പ്രധാന പാരാമീറ്റർ നോക്കുന്നു നിങ്ങൾ താപനില നേരിട്ട് അളക്കുന്നില്ല പലപ്പോഴും സിസ്റ്റങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാരൃമാണിത് പകരം നിങ്ങൾ കാന്തികക്ഷേത്രത്തിലെ മാറ്റം അളക്കുന്നതിലൂടെ താപനില മാറ്റം സൂചിപ്പിക്കുന്നു ഇപ്പോൾ കാന്തികക്ഷേത്രത്തിൽ ഒരു മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും അതിനർത്ഥം നിങ്ങൾക്ക് കാന്തങ്ങൾ വേണമെന്നാണ് ഈ മനോഹരമായ ചെറിയ ചിത്രത്തിലേക്ക് നിങ്ങൾ തിരികെ പോയാൽ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ കാന്തങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടു കാണും ഇത് ഒരു കാന്തമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് ഒരു ആർക്ക് ആണ് പിന്നീടുള്ള ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഒരു ആർക്ക് എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും നിങ്ങൾ ഒരു ആർക്ക് കാണുന്നു ഒരു ചെറിയ ആർക്ക് മറ്റൊരു ചെറിയ ആർക്ക് ഇവിടെ ഈ വലിയ ആർക്ക് എന്നിവയുണ്ട് ഇതിനർത്ഥം ഈ കാന്തം ചൂടാകുകയാണെങ്കിൽ ഈ ബെയറിംഗ് ചൂടാകുന്നുവെങ്കിൽ ഈ ആർക്ക് മാഗ്നറ്റിന്റെ കാന്തികക്ഷേത്രം മാറുകയും നിങ്ങൾക്ക് ഈ കാന്തത്തിന്റെ കാന്തികക്ഷേത്രത്തിലെ മാറ്റത്തെ ഫലപ്രദമായി വായിക്കാൻ കഴിയുമെങ്കിൽ തുടർന്ന് കാലിബ്രേറ്റ്ചെയ്ത് ഈ താപനില അളക്കുന്നു നിരവധി കാരണങ്ങളാൽ പാരാമീറ്റർ നിങ്ങൾ നേരിട്ട് അളക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഈ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐആർ തെർമോമീറ്റർ ഉപയോഗിച്ച് ഈ ബെയറിംഗിൻറെതാപനില ഇൻവേസീവ് അല്ലാതെ നേരിട്ട് അളക്കാമായിരുന്നു ഐആർ തെർമോമീറ്റർ എടുത്ത് കാണിക്കുക ഒരു ബീം ഐആർ ബീം തെർമോമീറ്റർ എടുത്ത് ഇൻവേസീവ് അല്ലാത്ത ഈ രീതി ഉപയോഗിച്ച് താപനില അളക്കാമായിരുന്നു